ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ സാന്നിധ്യത്തിൽ II നമ്മൾ ഇതുവരെ ഒരു ഡൈഇലക്ട്രിക്ക് മീഡിയ ത്തിലെ ഇലക്ട്രിക്ക് ഫീൽഡ് നെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ക്വാണ്ടിറ്റികളെ കുറിച്ചുമാണ് ചർച്ച ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പ്രശ്നം ഇൻഫിനിറ്റ് ഡൈഇലക്ട്രിക്ക് മീഡിയത്തിലുള്ള ഒരു പോയിന്റ് ചാർജ് Q കാരണമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇലക്ട്രിക്ക് പൊട്ടൻഷ്യൽ ഇവയെകുറിച്ചായിരുന്നു ചാർജ് Q ഒറിജിനിൽ സ്ഥിതിചെയ്യുന്നു എന്ന് സങ്കൽപ്പിച്ച് r അകലത്തിലുള്ള ബിന്ദുവിലെ പൊട്ടൻഷ്യൽ V നമ്മൾ കണ്ടുപിടിച്ചു

ഇതിനു പുറമെ ബന്ധിത ചാർജ് അഥവാ ബൌണ്ട് ചാർജ് കാരണമുള്ള വോളിയം ചാർജ് ഡെൻസിറ്റി എന്നും ലഭിച്ചു അതായത് ഇത്രയുമാണ് നമ്മൾ നേരത്തെ കണ്ടത് അടുത്തതായി രണ്ടാമത്തെ ഉദാഹരണമായി നമ്മൾ കേന്ദ്രത്തിൽ Q ചാർജുള്ള ഈ ഗോളാകൃതിയിലുള്ള ഡൈഇലക്ട്രിക്ക് എടുക്കാം ഇത് ഒരു ഇൻഫിനിറ്റ് ഡൈഇലക്ട്രിക്ക് അല്ല R റേഡിയസ് ആയുള്ള ഒരു ഗോളമാണ് നേരത്തെ ചർച്ച ചെയ്ത ഉദാഹരണത്തിൽ പറഞ്ഞത് പോലെ ഇവിടെ ഗോളത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥിതിചെയ്യുന്ന സ്വതന്ത്ര ചാർജ് Q വിനു പുറമെ ബന്ധിത ചാർജ് Qb കൂടി ഉണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നത് ഈ ചാർജുകൾ കാരണമുള്ള സഫല ഇലക്ട്രിക്ക് ഫീൽഡ് മീഡിയത്തിൽ പോളറൈസേഷൻ P സംജാതമാക്കുന്നു ഈ പോളറൈസേഷൻ എത്രയായിരിക്കും

അപ്പോൾ ഈ പോളറൈസേഷൻ P കാരണം R റേഡിയസ് ഉള്ള ഈ ഗോളത്തിൽ എന്താണ് മാറ്റമുണ്ടാവുന്നത് ഇത് ഈ ഗോളത്തിൽ 𝜎 എന്ന സർഫേസ് ചാർജ് ഡെൻസിറ്റി സംജാതമാക്കുന്നു അടുത്തതായി നമുക്ക് ഇവിടെ ഉളവായിരിക്കുന്ന സ്ഥിതിവിശേഷം എന്താണെന്ന് നോക്കാം നമുക്കിവിടെ R റേഡിയസ് ഉള്ള പരിമിതമായ വലുപ്പമുള്ള ഗോളാകൃതിയിലുള്ള ഒരു ഡൈഇലക്ട്രിക്ക് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ സ്വതന്ത്ര ചാർജ് Q ബൌണ്ട് ചാർജ് Qb എന്നിവയുണ്ട് മാത്രമല്ല ഉള്ളിൽ നിന്നും പുറത്തേക്കുള്ള ദിശയിലേക്കുള്ള പോളറൈസേഷൻ P കാരണം ഗോളോപരിതലത്തിൽ Q ചാർജ് വിന്യസിക്കപ്പെടുകയും ചെയ്യുന്നു ഇവിടെ P യുടെ സബ്സ്റ്റിട്യൂഷൻ ചെയ്താൽ ഇവിടെ K 1 e അപ്പോൾ ആകെ സർഫേസ് ചാർജ് ഇത് നേരത്തെ ഗോളത്തിന്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന ബൌണ്ട് ചാർജിന്റെ നേരെ വിപരീതമാണ് അവിടെ നമുക്ക് കിട്ടിയത് എന്നായിരുന്നു അങ്ങനെ ബൌണ്ട് ചാർജ് കാരണമുള്ള സ്വാധീനം പരസ്പരം ഈ സർഫേസ് ചാർജുമായി നിർവീര്യമാക്കപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഫലത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്ക് ഫീൽഡ് Q കാരണം മാത്രമുള്ളതായിരിക്കും ഇത് നമുക്ക് ഒന്നുകൂടെ വിശദമായി നോക്കാം അതിനായി ഞാൻ ഈ R റേഡിയസ് ആയിട്ടുള്ള ഗോളം ഒന്നുകൂടെ ഇവിടെ വരച്ചിരിക്കയാണ് ഇതിന്റെ കേന്ദ്രത്തിൽ ചാർജ് Q ഉണ്ട് നമുക്കറിയാം ഞാനിവിടെ ഗോസ് നിയമം Gauss's law പ്രയോഗിക്കുകയാണ് ഇവിടെ ഗോളത്തിന്റെ കേന്ദ്രത്തിൽ Q ചാർജ് ഉണ്ട് ഗോളീയ സമമിതി അഥവാ സ്ഫെറിക്കൽ സിമെട്രി ആയതുകൊണ്ട് കേൾ എടുക്കേണ്ട ആവശ്യമില്ല ഗോളത്തിനു ചുറ്റുമായി ബാഹ്യഭാഗത്ത് r റേഡിയസ് ഉള്ള ഗോളം സങ്കൽപ്പിച്ച് ഗോസ് സിദ്ധാന്തം പ്രയോഗിച്ചാൽ അപ്പോൾ ഇലക്ട്രിക്ക് ഫീൽഡ് കാരണം ഗോളത്തിന്റെ ബാഹ്യ ഭാഗത്ത് K 1 ആയിരിക്കും ഇതിന്റെ ദിശ ഗോളത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും റേഡിയസിലൂടെ പുറത്തേക്കായിരിക്കും ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെ ആണ് കാരണം നേരത്തെ പറഞ്ഞതനുസരിച്ച് സർഫേസ് ബൌണ്ട് ചാർജും ഗോളത്തിന്റെ അന്തർഭാഗത്തുള്ള പോയിന്റ് ബൌണ്ട് ചാർജും കണക്കിലെടുക്കുമ്പോൾ ആകെയുള്ള സഫല ബൌണ്ട് ചാർജ് സീറോ ആയിരിക്കുമല്ലോ ഗോളത്തിന്റെ അന്തർഭാഗത്തുള്ള D എത്രയായിരിക്കും തന്നെയായിരിക്കും ഇവിടെ ഉള്ളിൽ r റേഡിയസ് ആയി ഒരു ഗോസിയൻ സർഫേസ് എടുത്താൽ നമുക്ക് ഇതായിരിക്കും ലഭിക്കുന്നത് എന്നാൽ ഇലക്ട്രിക്ക് ഫീൽഡ് E വ്യത്യാസപ്പെടുന്നുണ്ട് അപ്പോൾ അതായത് ഗോള ഉപരിതലം കടന്നു പോകുമ്പോൾ ഇലക്ട്രിക്ക് ഫീൽഡിൽ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നർത്ഥം ഇതിനു കാരണം ഉപരിതലത്തിലുള്ള ചാർജ് വിന്യാസമാണ് സർഫേസ് ചാർജ് σ ഉണ്ടായിരിക്കുമ്പോൾ ഗോസ് നിയമം അനുസരിച്ച് 2 0 പുറത്തേക്കും 2 0 ഉള്ളിലേക്കും ഫീൽഡ് ഉണ്ടായിരിക്കും അതുകൊണ്ടുതന്നെ ഉള്ളിലുള്ള ഫീൽഡ് പുറത്തേതിനേക്കാൾ കുറവായിരിക്കും ഇത് പോളറൈസേഷൻ കാരണമാണ് സംഭവിക്കുന്നത് ഇനി പൊട്ടൻഷ്യൽ V എത്രയായിരിക്കുമെന്നു നോക്കാം ഇവിടെ പൊട്ടൻഷ്യൽ എല്ലായിടത്തും ഒരേ പോലെ ആയിരിക്കണമല്ലോ കാരണം പൊട്ടൻഷ്യൽ എന്നത് ചെയ്യപ്പെടുന്ന പ്രവൃത്തി അഥവാ വർക്ക് ആണല്ലോ പൊട്ടൻഷ്യൽ കാണുന്നത് ഒരു അസൈൻമെൻറ്റ് ആയി നിങ്ങൾക്ക് തരികയാണ് ഉള്ളിലും പുറത്തുമുള്ള ഇലക്ട്രിക്ക് ഫീൽഡിൽ വ്യത്യാസമുള്ളതുകൊണ്ട് പൊട്ടൻഷ്യൽ കാണുമ്പോൾ സർഫേസിൽ ഒരു തുടർച്ചയില്ലായ്മ അഥവാ വിരാമം ഉണ്ടായിരിക്കും ഡൈഇലക്ട്രിക്കിന് ചുറ്റുമുള്ള ഇലക്ട്രിക്ക് ഫീൽഡിനെ കുറിച്ചുള്ള പഠനം നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലൂടെ തുടരാം ഇവിടെ ഞാൻ ഡൈഇലക്ട്രിക്ക് കോൺസ്റ്റന്റ് K ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്സെപ്റ്റിബിലിറ്റി e ആയിട്ടുള്ള ഒരു ഡൈഇലക്ട്രിക്ക് ഗോളം ഒരു യൂണിഫോം ഇലക്ട്രിക്ക് ഫീൽഡ് അഥവാ സമമായ വൈദ്യുത മണ്ഡലത്തിൽ വെച്ചിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഡൈഇലക്ട്രിക്കിന് പകരം ഒരു ലോഹ ഗോളം ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്കറിയാം ലോഹം സുചാലകമായതുകൊണ്ട് ഇതിനുള്ളിൽ ഫീൽഡ് സീറോ ആയിരിക്കും അതായത് Ein 0 ഗോളത്തിന്റെ ഉപരിതലത്തിൽ E ലംബമായാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ഗോളത്തിൽ നിന്നും അകന്നകന്നു പോകുന്തോറും ഈ ഫീൽഡിന്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാരണം അവിടെ ഫീൽഡ് നമ്മൾ പ്രയോഗിച്ച ബാഹ്യ ഫീൽഡ് മാത്രമായിരിക്കും ഇത്രയുമാണ് ഒരു ലോഹ ഗോളത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നാൽ ഒരു ഡൈഇലക്ട്രിക്കിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക ഡൈഇലക്ട്രിക് ഇലക്ട്രിക്ക് ഫീൽഡിനെ ആഴത്തിലിറങ്ങാൻ അനുവദിക്കുന്നു കാരണം ഇതിൽ സ്വതന്ത്ര ചാർജുകൾ ഇല്ല ബന്ധിത ചാർജുകൾ മാത്രമേയുള്ളൂ ഇത് ഒറ്റ നോട്ടത്തിൽ ലോഹഗോളത്തിന്റെ അവസ്ഥയുമായി സാമ്യം തോന്നുമെങ്കിലും ഇവിടെ എല്ലാ ക്വാണ്ടിറ്റികളുടെയും അളവ് നേരത്തേതിൽ നിന്നും വിഭിന്നമായിരിക്കും മാത്രമല്ല ഇവിടെ E∥ തുടർച്ചയായിരിക്കും എന്ന ബൌണ്ടറി കണ്ടീഷൻ കൂടെ ഉണ്ട് എന്നാൽ ഗോള രൂപത്തിലുള്ള ചാലകത്തിന്റെ കാര്യത്തിൽ E∥ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡൈഇലക്ട്രിക്കിന്റെ കാര്യത്തിൽ നമ്മളെങ്ങനെയാണ് പ്രശ്നപരിഹാരം നടത്തുന്നതെന്ന് നോക്കാം ഇതിനായി പല രീതികളുണ്ട് പക്ഷെ നമ്മളിവിടെ ഏറ്റവും ലളിതമായ മാർഗം സ്വീകരിക്കയാണ് ഇവിടെ ഫീൽഡ് E0 ആണെന്നിരിക്കട്ടെ ഈ ഫീൽഡ് E0 ഡൈഇലക്ട്രിക്കിൽ പോളറൈസേഷൻ P ഉണ്ടാക്കുന്നു ഇതിനെ നമുക്ക് P1 എന്ന് വിളിക്കാം ഈ P1 എന്താണ് ചെയ്യുന്നത് ഇത് ഗോളോപരിതലത്തിന്റെ ഒരു വശത്ത് പോസിറ്റീവ് ചാർജും മറുവശത്തു നെഗറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യുന്നു ഈ ചാർജ് വിന്യാസത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും നമുക്കറിയാം P കോൺസ്റ്റന്റ് ആയിരിക്കുമെന്നും P1 e 0 E1 ആണെന്നും ഇത് Z ദിശയിലേക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ദിശയിൽ സർഫേസ് ചാർജ് ആയിരിക്കും ഗോളത്തിനുള്ളിൽ ഒരു യൂണിഫോം ഫീൽഡും പുറത്തു ഒരു ഡൈപോൾ ഫീൽഡും ഉണ്ടാക്കുന്നു എന്ന വസ്തുത നേരത്തെ പഠിച്ചത് നിങ്ങൾക്കോർമയുണ്ടല്ലോ ഇവിടെ നമ്മൾ ഗോളത്തിനു പുറത്തുള്ള ഫീൽഡിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല ഗോളത്തിനുള്ളിൽ ബാഹ്യ ഫീൽഡ് E0 ആണ് കാരണം ഗോളത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഫീൽഡ് ഇവിടെ പച്ച നിറത്തിൽ കാണിച്ചിട്ടുണ്ട് കാരണമുള്ള ഈ ഫീൽഡ് ഉള്ളിലുള്ള ബാഹ്യ ഫീൽഡിന് വിപരീത ദിശയിലായതിനാൽ E0 കുറയുന്നു ലോഹങ്ങൾക്ക് അല്ലെങ്കിൽ ചാലകങ്ങൾക്ക് ഫീൽഡ് സീറോ ആകുന്നു എന്നാൽ ഡൈഇലക്ട്രിക്കുകൾക്ക് ഗോളത്തിനുള്ളിൽ ഫീൽഡ് കുറയുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോഴുള്ള സഫല ഇലക്ട്രിക്ക് ഫീൽഡിനെ നമുക്ക് E 2 എന്നെടുക്കാം ഈ ഫീൽഡ് കാരണം സംജാതമാകുന്ന പോളറൈസേഷൻ P2 എന്നിരിക്കട്ടെ അപ്പോൾ ഈ പോളറൈസേഷൻ കാരണം ഗോളത്തിന്റെ ഇടതുവശത്ത് പോസിറ്റീവ് ചാർജും വലതുവശത്ത് നെഗറ്റീവ് ചാർജും പ്രേരിതമാക്കപ്പെടുന്നു ഇത് ഇപ്രകാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതേ രീതി ആവർത്തിച്ച് നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ബാഹ്യ ഇലക്ട്രിക്ക് ഫീൽഡ് E0 ഇതിന്റെ അതെ ദിശയിൽ ഒരു സഫല പോളറൈസേഷൻ സംജാതമാക്കുന്നു എന്ന് ആദ്യമേ തന്നെ സങ്കല്പിക്കാം ഇവിടെ ഉണ്ടാകുന്ന പോളറൈസേഷൻ കാര്യങ്ങൾ സുഗമമാക്കാൻ ഈ ചിത്രത്തിൽ കാണിച്ചത് പോലെ പോളറൈസേഷൻ Z ദിശയിലാണെന്നു കരുതുക നമുക്കറിയാം അതായത് അപ്പോൾ ഗോളത്തിന്റെ ഒരു വശത്ത് P എന്ന പോസിറ്റീവ് ചാർജും മറു വശത്ത് P എന്ന നെഗറ്റീവ് ചാർജും ഉണ്ടാകുന്നു ഇത് കാരണം ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്തെന്നാൽ ഈ ഗോളത്തിനെ ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് E0 വിൽ വെക്കുമ്പോൾ ഗോളത്തിനുള്ളിൽ E0 എന്ന ഫീൽഡും ഇതിനു വിപരീത ദിശയിൽ P 30 എന്ന ഫീൽഡും സംജാതമാകുന്നു ഇത്രയും നമ്മൾ ചെയ്തുകഴിഞ്ഞതാണ് അപ്പോൾ ഗോളത്തിനുള്ളിലുള്ള സഫല ഇലക്ട്രിക്ക് ഫീൽഡ് ഇവിടെ പോളറൈസേഷൻ അതായത് സഫല ഇലക്ട്രിക്ക് ഫീൽഡിനെ e 0 കൊണ്ട് ഗുണിച്ചതായിരിക്കും പോളറൈസേഷൻ P E P ഇവ ഒരേ ദിശയിൽ ആയതിനാൽ ഞാനിവിടെ വെക്റ്റർ സിംബൽ ഇടുന്നില്ല P യുടെ സബ്സ്റ്റിട്യൂഷൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഉള്ളിലുള്ള ഫീൽഡ് E0 യുടെ അതെ ദിശയിൽ തന്നെ ആയിരിക്കും എന്നാൽ ഫീൽഡ് E0 യെക്കാൾ കുറവാണ് മാത്രമല്ല K 1 ആകുമ്പോൾ Enet E0 അതായത് ഡൈഇലക്ട്രിക്ക് മാധ്യമം ഇല്ല എങ്കിൽ Enet E0 യ്ക്ക് തുല്യമായിരിക്കും അപ്പോൾ ഇതുവരെ മനസിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഡൈഇലക്ട്രിക്ക് ഗോളം ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് E0 യിൽ വെക്കുകയാണെങ്കിൽ അതിനുള്ളിലുണ്ടാകുന്ന ഫീൽഡ് ആയിരിക്കും ഇവിടെയുണ്ടാകുന്ന പോളറൈസേഷൻ എത്രയാണ് പോളറൈസേഷൻ അപ്പോൾ ഗോളത്തിനു പുറത്തുള്ള ഫീൽഡ് E0 z ഉം ഗോളത്തിന്റെ ഡൈപോൾ മോമെന്റ്റ് p കാരണമുള്ള ഫീൽഡും ചേർന്നതായിരിക്കും ഗോളത്തിന്റെ ഡൈപോൾ മോമെന്റ്റ് എത്രയായിരിക്കും ഡൈപോൾ മോമെന്റ്റ് അപ്പോൾ ഈ ഡൈപോൾ മോമെന്റ്റ് കാരണമുള്ള ഫീൽഡും E0 z നോടൊപ്പം കൂട്ടുന്നു അപ്പോൾ ഗോളത്തിനു പുറത്തുള്ള ആകെ ഫീൽഡ് ലഭിക്കും അപ്പോൾ നമുക്ക് മനസിലാകുന്നത് ഗോളത്തിനുള്ളിൽ സഫല ഫീൽഡ് നമ്മൾ പ്രയോഗിച്ച ബാഹ്യ ഫീൽഡിനെക്കാൾ കുറയുന്നു എന്നും ഗോളത്തിനു പുറത്ത് ഡൈപോൾ കാരണമുള്ള ഫീൽഡ് ബാഹ്യ ഫീൽഡിനോട് കൂടെ ചേർന്ന് സഫല ഫീൽഡ് കൂടുതൽ ശക്തമാകുന്നുവെന്നുമാണ് ഇത്രയുമാണ് ഇത്തരം പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗം ഇതിന്റെ ബൌണ്ടറി കണ്ടീഷനുകൾ അതായത് D⟂ E∥ ഇവ തുടർച്ചയായുള്ളത് അഥവാ കണ്ടിന്യൂസ് എന്ന കണ്ടീഷനുകൾ പരിശോധിക്കുന്ന ഭാഗം നിങ്ങൾക്ക് അസൈൻമെന്റ് ആയി തരികയാണ് അടുത്തതായി ഞാൻ ഒരു ചതുരക്കട്ടയുടെ രൂപത്തിലുള്ള ഡൈഇലക്ട്രിക് അഥവാ ഒരു ഡൈഇലക്ട്രിക് സ്ളാബ് സങ്കല്പിക്കുകയാണ് ഇതിനു മുൻവശത്തായി d അകലത്തിൽ ഒരു ചാർജ് q ഉണ്ടെന്നിരിക്കട്ടെ ഇപ്പോൾ ഈ ഡൈഇലക്ട്രിക്കിന്റെ ഉള്ളിലുണ്ടാകുന്ന ഫീൽഡ് എത്രയായിരിക്കും നിങ്ങൾക്കറിയാം ഇത് ഒരു ലോഹ സ്ളാബ് ആയിരുന്നെങ്കിൽ ഇതിനുള്ളിൽ ഫീൽഡ് സീറോ ആയിരിക്കുമെന്ന് എന്നാൽ ഡൈഇലക്ട്രികിൽ ഫീൽഡ് ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട് നമുക്ക് അപ്പോൾ ഈ ഫീൽഡ് എത്രയെന്ന് കാണണം ഇതിനായി സാധാരണയായി ചെയ്യുന്നത് സ്ലാബിനുള്ളിൽ ഉപരിതലത്തിൽ നിന്നും q സ്ഥിതി ചെയ്യുന്ന അതേ അകലത്തിൽ മറ്റൊരു ചാർജ് q1 കൂടി വെക്കുക എന്നതാണ് എന്നിട്ടു ബൌണ്ടറി കണ്ടീഷനുകൾ അനുസരിച്ച് ഫീൽഡ് കണ്ടുപിടിക്കണം പക്ഷെ ഇവിടെ നമ്മൾ മറ്റൊരു രീതിയാണ് അവലംബിക്കുന്നത് ഇവിടെ സമമിതി അഥവാ സിമെട്രി അനുസരിച്ച് ചാർജ് q സ്ലാബിന്റെ പ്രതലത്തിലുള്ള ബിന്ദുവിൽ എന്ന സർഫേസ് ചാർജ് ഉണ്ടാക്കുന്നു r എന്നത് ചാർജും സ്ലാബിന്റെ ഉപരിതലവും തമ്മിലുള്ള ലംബത്തിൽ നിന്നും ബിന്ദുവിലേക്കുള്ള ദൂരമാണ് ഈ കാരണം എന്താണ് സംഭവിക്കുന്നത് ഇത് സ്ലാബിന്റ് പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് 2 0 യും ഉൾവശത്തേക്ക് 2 0 യും ഫീൽഡ് സംജാതമാക്കുന്നു ഇവിടെ വരുന്ന ബൌണ്ടറി കണ്ടീഷൻ D⟂inside D⟂outside അഥവാ ഉള്ളിലും പുറത്തും D⟂ തുടർച്ചയായിരിക്കുമെന്നാണ് ഇതുപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് നമുക്കതിന് ശ്രമിക്കാം നേരത്തെ പറഞ്ഞതുപോലെ സ്ലാബിന്റെ പ്രതലത്തിൽ നിന്നും d ദൂരത്തിൽ ചാർജ് q ഉണ്ട് പ്രതലവും q വും തമ്മിലുള്ള ലംബത്തിൽ നിന്നും r അകലത്തിൽ പ്രതലത്തിലുള്ള ബിന്ദുവിലുള്ള ചാർജ് വിന്യാസം ആണ് ഈ ചാർജ് q കാരണം സ്ലാബിന്റെ ബാഹ്യഭാഗത്ത് അനുഭവപ്പെടുന്ന ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ലംബമായുള്ള കംപോണന്റ് മാത്രമല്ല ചാർജ് വിന്യാസം കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്ലാബിന്റ് പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് 2 0 എന്ന ഫീൽഡും ഉൾവശത്തേക്ക് 2 0 എന്ന ഫീൽഡും സംജാതമാക്കുന്നുണ്ട് അടുത്തതായി ഇവിടെ ബൌണ്ടറി കണ്ടീഷൻ പ്രയോഗിക്കാം അതായത് കാരണം സ്ലാബിനു ബാഹ്യഭാഗത്ത് K 1 ആയിരിക്കും ഇലക്ട്രിക്ക് ഫീൽഡിന്റെ സബ്സ്റ്റിട്യൂഷൻ ചെയ്താൽ സ്ലാബിനു ഉള്ളിൽ നമുക്കറിയാം അപ്പോൾ രണ്ടു ഇക്വേഷനും ചേർത്ത് പുനഃക്രമീകരിച്ചാൽ ഇക്വേഷന്റെ രണ്ടു വശത്തുനിന്നും 2 0 ക്യാൻസൽ ചെയ്ത് മാറ്റി എഴുതിയാൽ എന്നാൽ K 1 𝝌e ആണല്ലോ അപ്പോൾ ഈ ഇക്വേഷൻ നേരത്തെ ലോഹ ഉപരിതലത്തിൽ വിന്യസിക്കപ്പെട്ട ഇമേജ് ചാർജിനു സമാനമാണെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഇവിടെ ആകെയുള്ള വ്യത്യാസം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചാർജ് വിന്യാസം e 2 e മടങ്ങായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇമേജ് ചാർജ് രീതി അവലംബിച്ചും ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഡൈഇലക്ട്രിക്കിന്റെ മറുവശത്ത് ആവശ്യമായി വരുന്ന ഇമേജ് ചാർജ് എത്രയെന്ന് കാണുന്നത് ഒരു അസൈൻമെന്റ് ആയി തരികയാണ്